ഹലോ സുഹൃത്തുക്കളെ ഈ ആഴ്ചയിൽ രണ്ടാം തവണ നമ്മൾ ഗ്യാസ് മിശ്രിതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഐഡിയൽ റിയൽ വാതകങ്ങളുടെ മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് സാധ്യമാകുന്ന സാഹചര്യത്തെക്കുറിച്ച് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ഞാൻ വാതക മിശ്രിതങ്ങളുടെ സവിശേഷതകൾ കണക്കാക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കാം ഇപ്പോൾ വാതക മിശ്രിതങ്ങളുടെ ഗുണവിശേഷതകൾ കണക്കാക്കാൻ നമുക്ക് രണ്ട് തരത്തിലുള്ള ഗുണവിശേഷങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒന്ന് എക്സ്ടെൻസീവ് മറ്റൊന്ന് ഇൻടെൻസീവ് നമുക്ക് ചില എക്സ്ടെൻസീവ് പ്രോപ്പർട്ടികളെകുറിച്ച് സംസാരിച്ച് ആരംഭിക്കാം ചില എക്സ്ടെൻസീവ് പ്രോപ്പർട്ടികൾക്കായി മിശ്രിതത്തിന്റെ ഏതെങ്കിലും എക്സ്ടെൻസീവ് പ്രോപ്പർട്ടി വ്യാപ്തി തിരിച്ചറിയാൻ വളരെ ലളിതമാണ് അതിന്റെ എല്ലാ ഘടകങ്ങൾക്കും അനുബന്ധമായ എക്സ്ടെൻസീവ് പ്രോപ്പർട്ടി നമ്മൾ ചേർക്കേണ്ടതുണ്ട് അത് വളരെ ലളിതമാണ് മിശ്രിതത്തിനായുള്ള എക്സ്ടെൻസീവ് പ്രോപ്പർട്ടി ലഭിക്കുന്നതിന് നമ്മൾ ഓരോ ഘടകങ്ങളുടെയും എക്സ്ടെൻസീവ് പ്രോപ്പർട്ടി ചേർക്കേണ്ടതുണ്ട് k ഘടകങ്ങളുടെ എണ്ണം അടങ്ങിയ ഒരു മിശ്രിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക ഓരോ ഘടകങ്ങളുടെയും മാസിനെ mi പ്രതിനിധീകരിക്കുന്നു ni ഓരോ ഘടകങ്ങളുടെയും മോളുകളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കുന്നു അതിനനുസൃതമായി നിങ്ങൾക്ക് മാസ്സ് ഫ്രാക്ഷൻ xi യും മോൾ ഫ്രാക്ഷൻ yi യും ഉണ്ടാകും 1 മുതൽ k വരെ തുല്യമായ സംഗ്രഹം നടത്തുന്ന മിശ്രിതത്തിന്റെ ആകെ മാസ്സ് ആണ് m അതേസമയം n ആകെ മോളുകളുടെ എണ്ണം i 1 മുതൽ k വരെ സംഗ്രഹം നടത്തുന്നതിന് തുല്യമാണ് മാസ്സ് ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ എന്നിവയുടെ നിർവചനം നമുക്കറിയാം അതിനാൽ xi yi എന്നിവ വിശദീകരിക്കേണ്ട ആവശ്യമില്ല വളരെ സാധാരണമായ ചില എക്സ്ടെൻസീവ് പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ U എന്താണ് സൂചിപ്പിക്കുന്നത് മിശ്രിതത്തിൻറെ ആന്തരിക ഊർജ്ജം ഇങ്ങനെ എഴുതാം ഇവിടെ ആ പ്രത്യേക ഘടകത്തിന്റെ നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജമാണ് ui അതുപോലെ സമാനമായി നമ്മൾ എന്തൽപി എഴുതുകയാണെങ്കിൽ hi എന്നത് ആ പ്രത്യേക ഘടകത്തിന്റെ നിർദ്ദിഷ്ട എന്തൽപിയാണ് കൂടാതെ എൻട്രോപ്പി ഇപ്രകാരം പ്രകടിപ്പിക്കാം സാധാരണയായി തെർമോഡൈനാമിക്സിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും സാധാരണമായ എക്സ്ടെൻസീവ് പ്രോപ്പർട്ടികളാണ് ഇവ മൂന്നും ക്ലോസ്ഡ് സിസ്റ്റത്തിനായി തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിന്റെ പ്രയോഗത്തിന്റെ ഊർജ്ജ ബാലൻസുമായി ആന്തരിക ഊർജ്ജം ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൽപി വീണ്ടും തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം പക്ഷേ ഓപ്പൺ സിസ്റ്റത്തിനായി എൻട്രോപ്പി ഈ കോഴ്സിൽ നമ്മൾഅത്രയധികം ഉപയോഗിച്ചിട്ടില്ല എന്നാൽ രണ്ടാമത്തെ നിയമ വിശകലനത്തിനോ എക്സർജി വിശകലനത്തിനോ തിരയുമ്പോഴെല്ലാം എൻട്രോപ്പി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങളും എല്ലാം വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതിയത് അതിനാൽ അവ മിശ്രിതത്തിന്റെ എക്സ്ടെൻസീവ് പ്രോപ്പർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത് ഓരോ ഘടകങ്ങളിൽ നിന്നും വരുന്ന സംഭാവനകൾ ചേർത്തുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന വഴിയാണിത് മിക്കപ്പോഴും ഈ സൂപ്പർ പ്രോപ്പർട്ടികളിലെ മാറ്റത്തെ നേരിടേണ്ടി വന്നേക്കാം വാസ്തവത്തിൽ തെർമോഡൈനാമിക്സിൽ ഈ ഗുണങ്ങളുടെ കേവല വ്യാപ്തിയെക്കുറിച്ച് നമ്മൾചിന്തിക്കുന്നില്ല പ്രോസസ്സിനിടയിലോ അല്ലെങ്കിൽ ഒരു സൈക്കിളിലോ ഈ സവിശേഷതകളിലെ മാറ്റത്തെക്കുറിച്ച് നമ്മൾഎല്ലായ്പ്പോഴും ആശങ്കാകുലരാണ് ആന്തരിക ഊർജ്ജ മാറ്റത്തെ ΔUm സൂചിപ്പിക്കുന്നുവെങ്കിൽ ഇതിനെ എളുപ്പത്തിൽ പ്രതിനിധീകരിക്കാം അതുപോലെ മിശ്രിതത്തിനായുള്ള എന്തൽപിയിലെ മാറ്റം ഇങ്ങനെ എഴുതാം അതുപോലെതന്നെ മൊത്തം മിശ്രിത എൻട്രോപ്പിയുടെ മാറ്റം ഇങ്ങനെ എഴുതാം സാധാരണയായി നമ്മൾഎല്ലായ്പ്പോഴും മിശ്രിതത്തിനായി ഈ എക്സ്ടെൻസീവ് നൊട്ടേഷലൂടെ പോകുന്നു ചിലപ്പോൾ നമുക്ക് ഇന്റെൻസീവ് ഒരു നൊട്ടേഷനിനായി പോകേണ്ടിവരാം അത്തരം സന്ദർഭങ്ങളിൽ മിശ്രിതത്തിനായുള്ള നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജം നിർവചിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് 'um' ഉപയോഗിക്കാം അത് മറ്റൊന്നുമല്ല Um എന്നത് മിശ്രിതത്തിന് മുഴുവൻ ഊർജ്ജമാണ് അല്ലെങ്കിൽ ഒരു മോളാർ അർത്ഥത്തിൽ നിർവചിക്കാൻ നമ്മൾആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ n ആകെ മോളുകളുടെ എണ്ണം ഇവിടെ ഈ ഓവർ ബാർ നൊട്ടേഷൻ മോളാർ നിർവചനത്തെ പ്രതിനിധീകരിക്കുന്നു ഓവർ ബാർ ഇല്ലാത്ത um എന്നത് മാസ് ബേസ് നിർവചനത്തെയോ ഗ്രാവിമെട്രിക് നിർവചനത്തെയോ പ്രതിനിധീകരിക്കുന്നു അതുപോലെ മിശ്രിതത്തിനായുള്ള എന്തൽപിയുടെയും എൻട്രോപ്പിയുടെയും നിർദ്ദിഷ്ട പതിപ്പുകൾ നിർവ്വചിക്കാനും കഴിയും എന്നിരുന്നാലും ആ വഴിയിലൂടെ പോകേണ്ടതില്ല ഇപ്പോൾ നമ്മൾ മിശ്രിതത്തിന്റെ ഇന്റെൻസീവ് പ്രോപ്പർട്ടികൾ നിർവചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും സാധാരണമായ ഇന്റെൻസീവ് പ്രോപ്പർട്ടി താപനിലയാണ് അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഒരേ താപനിലയിൽ ഉള്ള രണ്ട് വാതകങ്ങൾ കലർത്തുന്നുവെന്ന് കരുതുക അന്തിമ താപനിലയും ഒരുപോലെയാകുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആ പ്രസ്താവന പൂർണ്ണമായും ശരിയല്ല അതിനാൽ നമ്മൾ അത് പിന്നീട് തിരുത്തും നമുക്ക് മറ്റൊരു വഴിയിൽ നിന്ന് വരാം അതായത് മിശ്രിത താപനില നൽകിയാൽ എല്ലാ ഘടകങ്ങളും ഒരേപോലെയാണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ അനുമാനിക്കാം അതിനാൽ ഇന്റെൻസീവ് അർത്ഥത്തിൽ താപനില നൽകിയാൽ നമ്മൾ ഒരു കണക്കുകൂട്ടലിനും പോകേണ്ടതില്ല തുടർന്ന് നിങ്ങൾക്ക് ഓരോ ഘടകങ്ങളുടെയും താപനില എളുപ്പത്തിൽ കണക്കാക്കാം കാരണം ഇത് ഈ താപനില Tm ന് തുല്യമായിരിക്കും ഇവിടെ Tm മിശ്രിത താപനിലയെയും ഘടക താപനിലയെയും സൂചിപ്പിക്കുന്നു ഇത് ഐഡിയൽ റിയൽ വാതകങ്ങൾക്ക് ബാധകമാണ് സ്ലൈഡിൽ നിങ്ങൾ എഴുതുന്നതെന്തും അവ ഐഡിയൽ റിയൽ വാതകങ്ങൾക്ക് ബാധകമാണ് ഇനി നമുക്ക് നിർദ്ദിഷ്ട നിർവചനം അനുസരിച്ച് പോകാം അതിനാൽ എക്സ്ടെൻസീവ് ആയ um ഏതെങ്കിലും എക്സ്ടെൻസീവ് ആയ പ്രോപ്പർട്ടിയുടെ സവിശേഷത ഒരു ഇന്റെൻസീവ് പ്രോപ്പർട്ടി ആണല്ലോ സമാനമായി ഇത് ഇത്തരത്തിൽ എഴുതാം ഇതിനെ ഒന്ന് വികസിപ്പിച്ചാൽ ഇങ്ങനെ എഴുതാം അതിനു സമാനമായി ഇങ്ങനെ എഴുതാം മിശ്രിത എന്തൽപിയുടെ നിർദ്ദിഷ്ട പതിപ്പും മിശ്രിത എൻട്രോപ്പിയുടെ നിർദ്ദിഷ്ട പതിപ്പും അതുപോലെ ഇതിനെ മോളാർ അർത്ഥത്തിൽ എഴുതേണ്ടതുണ്ടെങ്കിൽ ആദ്യമായി ഈ mi യെ ഒന്നു മാറ്റി നോക്കാം മോളുകളുടെ എണ്ണം അല്ലെങ്കിൽ തന്മാത്രാ ഭാരം എന്നിവ കണക്കിലെടുത്ത് mi യെ എങ്ങനെ പ്രതിനിധീകരിക്കും നമ്മൾ mi നെ തന്മാത്രാ ഭാരം മോളുകളുടെ എണ്ണവുമായി ഗുണിച്ച് എഴുതാം അതിനാൽ ഇത് ഇതായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഇടതുവശത്ത് മോളാർ സെൻസ് നിർവചനം എഴുതുമ്പോൾ ഓരോ ഘടകങ്ങളും മോളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധീകരിക്കണം ഇപ്പോൾ ഇവിടെ എഴുതിയ ഈ ui അത് ഘടകത്തിനായുള്ള ഒരു പ്രത്യേക ആന്തരിക ഊർജ്ജമാണ് അതായത് അതിന്റെ യൂണിറ്റ് kJ kg ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മോളിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ എന്തുചെയ്യണം ui bar ഒരു യൂണിറ്റ് മോളിലെ നിർദ്ദിഷ്ട ആന്തരിക ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു kJ kmol അതിൻറെ യൂണിറ്റാണ് അപ്പോൾ ഈ ui bar ഉം ui ഉം തമ്മിലുള്ള ബന്ധം എന്താണ് തീർച്ചയായും ഇത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനെ ഒരു ബ്രാക്കറ്റിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും മുൻപ് ഞാൻ ഒരു തെറ്റ് ചെയ്തിരുന്നു മോളിക്കുലാർ വെയിറ്റ് ൻറെ യൂണിറ്റ് എന്താണ് Mi 🡪 kgkmol നമ്മൾ ui നെ mi കൊണ്ടു ഗുണിക്കുകയാണെങ്കിൽ അതിൻറെ ഫൈനൽ യൂണിറ്റ് എന്ത് ലഭിക്കും അതാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ബാർ ഉള്ള എല്ലാ അളവുകളും ഓരോ യൂണിറ്റ് മോളിലെ നിർവചനത്തെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ബാർ ഇല്ലാത്തവ ഓരോ യൂണിറ്റ് മാസ് നിർവചനത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ രീതിയിൽ ഓരോ ഘടകങ്ങളുടെയും നിർദ്ദിഷ്ട മൂല്യങ്ങൾ കണക്കാക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ഇന്റെൻസീവ് സ്വഭാവസവിശേഷതകൾ സ്പെസിഫിക് ഹീറ്റ് നിർദ്ദിഷ്ട താപമാണ് അതിനാൽ ഇന്റർസ്പേസ് ആന്തരിക ഊർജ്ജം അല്ലെങ്കിൽ എന്തൽപി അല്ലെങ്കിൽ എൻട്രോപ്പി എന്നിവയ്ക്കായി എഴുതിയ രീതിയിൽ മിശ്രിതത്തിന് സമാനമായി Cp നമുക്ക് ഈ രീതിയിൽ എഴുതാം Cv നിർദിഷ്ട വോളിയത്തിൽ ഉള്ള സ്പെസിഫിക് ഹീറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം ബാർ ഉള്ള മൂല്യങ്ങളെ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് യൂണിറ്റ് മോളിൽ ഉയർന്ന ഘടകത്തിനായുള്ള Cp ഓവർ ബാർ നിരന്തരമായ മർദ്ദത്തിൽ മോളാർ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട താപത്തെ പ്രതിനിധീകരിക്കുന്നു അതുപോലെ മിശ്രിതത്തിനായുള്ള ഐസോകോറിക് നിർദ്ദിഷ്ട താപത്തെ ഇനിപ്പറയുന്നവയായി പ്രതിനിധീകരിക്കാം അതിനാൽ ഇവിടെ എക്സ്ടെൻസീവ്വും ഇന്റെൻസീവ്മായ സവിശേഷതകൾ കണക്കാക്കുന്ന രീതി ഐഡിയൽ റിയൽ വാതക മിശ്രിതങ്ങൾക്ക് ബാധകമാണ് ഐഡിയൽ വാതക മിശ്രിതങ്ങളുടെ പ്രത്യേക കേസായി ഇത് കുറയ്ക്കാം ഐഡിയൽ വാതക മിശ്രിതത്തിനായി നമ്മൾ ഇത് പ്രയോഗിക്കാൻ പോകുന്നു വാതകങ്ങളുടെ നിർദ്ദിഷ്ട രൂപത്തിലേക്ക് എങ്ങനെ വ്യാപിക്കാമെന്ന് ഉള്ള ബന്ധങ്ങൾ കാണുന്നതിന് നമ്മൾ റിയൽ വാതക മിശ്രിതങ്ങളിലേക്ക് കടക്കാം ഒരു ഐഡിയൽ വാതക മിശ്രിതത്തെ പറ്റി സംസാരിക്കുമ്പോൾ ith ഘടക ത്തിനുള്ള മർദത്തെ നമുക്ക് ഇങ്ങനെ പ്രതിനിധീകരിക്കാം ഇവിടെPm എന്നത് മിശ്രിത മർദ്ദമാണ് ഈ Pi ഭാഗിക മർദ്ദം എന്ന് വിളിക്കുന്നു കാരണം ഇന്നലത്തെ പ്രഭാഷണ വേളയിൽ ഘടക മർദ്ദം എന്നത് അത് പാർഷ്യൽ മർദ്ദത്തിന് അതിന് തുല്യമാണ് ഐഡിയൽ ഗ്യാസ് ന് 𝑃𝑖 𝑦𝑖 𝑃𝑚 ന് തുല്യമാണ് ആണ് അതിനാൽ പാർഷ്യൽ വോളിയത്തിന്റെ ഭാഗിക മർദ്ദം ഐഡിയൽ വാതകങ്ങൾക്കായി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു അതേസമയം സാധാരണയായി അവയെ ഘടക മർദ്ദം എന്ന് വിളിക്കണം ആ നിർവചനം ഐഡിയൽ റിയൽ വാതകങ്ങൾക്ക് ബാധകമാണ് ഈ ഭാഗിക മർദ്ദത്തിനൊപ്പം പോകുന്ന ഐഡിയൽ വാതകങ്ങൾക്ക് പൊതുവായ സ്വഭാവങ്ങളായ എന്തൽപി ആന്തരിക ഊർജ്ജം Cp Cv മുതലായവയെല്ലാം ഐഡിയൽ വാതകങ്ങൾക്ക് താപനിലയുടെ മാത്രം പ്രവർത്തനങ്ങളാണെന്ന് നമുക്കറിയാം ഐഡിയൽ വാതകങ്ങൾ താപനിലയുടെ മാത്രം പ്രവർത്തനങ്ങളാണ് അത് മർദ്ദത്തിൽ നിന്ന് സ്വതന്ത്രമാണ് ഈ കാര്യം നമ്മൾ ഒരു മൊഡ്യൂൾ നമ്പർ 2 ൽ തെളിയിച്ചിരുന്നു നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ശരിയായി ഓർമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പാഠപുസ്തകത്തിലെ അനുബന്ധ ഭാഗങ്ങളിലേക്ക് നോക്കാം എന്തൽപി ആന്തരിക ഊർജ്ജം Cp Cv മുതലായവയെല്ലാം ഐഡിയൽ വാതകങ്ങൾക്ക് താപനിലയുടെ മാത്രം പ്രവർത്തനമാണെന്ന് നമുക്കറിയാം റിയൽ വാതകത്തിന് അവ താപനിലയുടെയും മർദ്ദത്തിന്റെയും പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവ താപനിലയുടെ മാത്രം പ്രവർത്തനങ്ങളായതിനാൽ ആന്തരിക ഊർജ്ജ ത്തിലെ മാറ്റം പോലുള്ള ഏതെങ്കിലും മാറ്റം താപനിലയിലെ അനുബന്ധ വ്യതിയാനത്തിന്റെ പ്രവർത്തനമായിരിക്കണം അല്ലെങ്കിൽ താപനിലയിലെ മാറ്റത്തിന്റെ ഒരു പ്രവർത്തനമായിരിക്കേണ്ട നിർദ്ദിഷ്ട എന്തൽപിയിലെ മാറ്റമായിരിക്കണം അതിനാൽ താപനിലയിലെ മാറ്റം നമുക്കറിയാമെങ്കിൽ ഈ പ്രോപ്പർട്ടി മൂല്യങ്ങളിലെ അനുബന്ധ മാറ്റം Cp Cv ക്കും തുല്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം P v T ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന u T എന്നിവ തമ്മിലുള്ള ബന്ധം നമ്മൾഅറിയേണ്ടതുണ്ട് ഐഡിയൽ വാതകങ്ങൾക്കായുള്ള P v T ബന്ധം അറിഞ്ഞുകഴിഞ്ഞാൽ P v T ബന്ധം ഇനിപ്പറയുന്നതായി നൽകിയിരിക്കുന്നു Pv RT മർദ്ദവും ആയുള്ള ബന്ധമെന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാം ഇതിനുള്ള പ്രയോഗം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക്കേഷന്റെ മൂല്യം ഉപയോഗിക്കാം മാത്രമല്ല നിങ്ങൾക്ക് റൂട്ടിലൂടെ പോകാനും കഴിയും തീർച്ചയായും എൻട്രോപ്പിക്കായി സ്ഥിതിഗതികൾ നേരെയല്ല കാരണം ഐഡിയൽ വാതകത്തിന് പോലും എൻട്രോപ്പി താപനിലയുടെയും മർദ്ദത്തിന്റെയും പ്രവർത്തനമാണ് എന്താണ് ബന്ധം നിങ്ങൾ ഓർക്കുന്നുണ്ടോ Tds ബന്ധങ്ങൾ അല്ലെങ്കിൽ Tds ബന്ധം ഉപയോഗിച്ച് നിങ്ങൾക്ക് താപനിലയുടെയും മർദ്ദത്തിന്റെയും പ്രവർത്തനമായി എൻട്രോപ്പിയുടെ നിർവചനം ലഭിക്കും അതിൻറെ ഇനങ്ങൾ ഓർക്കുന്നുണ്ടോ ആ Tds ബന്ധത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കണം തുടർന്ന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ബന്ധങ്ങൾ ഉപയോഗിക്കുക മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഐഡിയൽ വാതകങ്ങളുടെ സമവാക്യങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കും നിർദ്ദിഷ്ട എൻട്രോപ്പിയിലെ അത്തരം മാറ്റം ഇങ്ങനെ എഴുതാം ഇവിടെ യഥാക്രമം 2 ഉം 1 ഉം അന്തിമ പ്രാരംഭ അവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇവിടെ ith ഘടകത്തിനായുള്ള നിർദ്ദിഷ്ട എൻട്രോപ്പിയിലെ മാറ്റം ആണ് നമ്മൾ എഴുതുന്നത് ഇവയെല്ലാം ചേർത്തുകൊണ്ട് ഇവയിലെ എല്ലാ ഘടകങ്ങളിലെയും മാറ്റം നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുമെങ്കിൽ മിശ്രിതത്തിലെ അന്തിമ മാറ്റം നേടാനാകും ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ എഴുതാം എല്ലാ ഘടകങ്ങളും ഒരേ രീതിയിൽ താപനില കൂടുന്നുവെന്ന് നമ്മൾ സൂചിപ്പിച്ചതിനാൽ താപനിലയിലെ മാറ്റം എല്ലാ ഘടകങ്ങൾക്കും തുല്യമാണ് അതിനാൽ ഇവിടെ എൻട്രോപ്പി സമവാക്യത്തിലെ മാറ്റത്തിൽ Ti1 Ti2 എന്നിവയ്ക്ക് പകരം T1 T2 എന്നിവ എഴുതുന്നു നമുക്ക് ഇങ്ങനെ എഴുതാം അവ 12 അവസ്ഥയിൽ താപ സന്തുലിതാവസ്ഥയിലാണ് എന്നാൽ ഈ Pi2 ഉം Pi1 ഉം വ്യത്യസ്തമായിരിക്കും കാരണം ഈ ബന്ധം നമ്മെ കാണിക്കുന്നതുപോലെ അതുപോലെതന്നെ 𝑃𝑖1 𝑦𝑖1 𝑃𝑚 1 𝑃𝑖2 𝑦𝑖2 𝑃𝑚 2 ഈ രീതിയിൽ ith ഘടകത്തിനായുള്ള എൻട്രോപ്പിയിലെ മാറ്റം നമുക്ക് കണക്കാക്കാം നിങ്ങൾക്ക് ഇത് മോളാർ അർത്ഥത്തിൽ എഴുതണമെങ്കിൽ എല്ലാ ഘടകങ്ങളെയും മോളുകളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം ഇവിടെ നമ്മൾ എല്ലാം മോളിക്കുലാർ വെയിറ്റ് കൊണ്ട് ഗുണിക്കുന്നു പിന്നെ അതിനാൽ ഈ രീതിയിൽ നമുക്ക് അതേ നിർവചനം മോളാർ സ്കെയിലിലേക്കും പരിവർത്തനം ചെയ്യാൻ കഴിയും ഐഡിയൽ വാതക മിശ്രിതത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് തെർമോഡൈനാമിക് ഗുണങ്ങളുടെ മാറ്റം ഇത്തരത്തിൽ കണക്കാക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രത്യേക ബന്ധം പലപ്പോഴും ഗിബ്സ് ഡാൽട്ടൺ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഗിബ്സ് ഡാൽട്ടൺ ലോ ഓഫ് അടിറ്റീവ് പ്രഷർ എന്നറിയപ്പെടുന്നു ഇതിനെ ഗിബ്സ് ഡാൽട്ടൺ ലോ ഓഫ് അടിറ്റീവ് പ്രഷർ ആയി എഴുതാൻ പാടില്ല ഇത് ഗിബ്സ് ഡാൽട്ടൺ തത്ത്വം പോലെയാണ് ഇത് ഇപ്രകാരം പറയുന്നു ഐഡിയൽ വാതക ഏകദേശ കണക്കിൽ ഒരു വാതകത്തിന്റെ ഗുണവിശേഷതകൾ മറ്റ് വാതകങ്ങളുടെ സാന്നിധ്യത്തെ സ്വാധീനിക്കുന്നില്ല ഓരോ വാതക ഘടകവും മിശ്രിത താപനില Tm മിശ്രിത വോളിയം Vm എന്നിവയിൽ മാത്രം നിലനിൽക്കുന്നതുപോലെ പ്രവർത്തിക്കുന്നു അതിനാൽ വാതക തന്മാത്രകൾ സാന്ദ്രത വളരെ കുറവാണെങ്കിൽ കുറഞ്ഞ മർദ്ദത്തിലോ ഉയർന്ന താപനിലയിലോ ആയിരിക്കുമ്പോൾ നമ്മൾഎടുക്കുന്ന ഐഡിയൽ വാതക ഏകദേശ കണക്ക് ഓർമിക്കാം ഈ വാതക തന്മാത്രകൾ പരസ്പരം വളരെ അകലെയാണ് അതിനാൽ ഓരോ തന്മാത്രയും അതിന്റെ അടുത്തുള്ള തന്മാത്രകളെ സ്വാധീനിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയാത്തവണ്ണം വളരെ അകലെയാണ് ഈ തന്മാത്രകൾ അതിനാൽ ഒരൊറ്റ ഐഡിയൽ വാതകം പ്രവർത്തിക്കുന്ന രീതിയും ഐഡിയൽ വാതകത്തിൻറെ മിശ്രിതവും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും അതിനാൽ മറ്റ് വാതകങ്ങളുടെ സാന്നിധ്യവും മിശ്രിതത്തിലെ ഓരോ വാതക ഘടകങ്ങളും മിശ്രിത താപനിലയിലും മിശ്രിത അളവിലും ഒരേപോലെ പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് നമുക്ക് മിശ്രിതത്തിന്റെ മർദ്ദം കണക്കാക്കാം ഇതേ തത്വം പ്രയോഗിച്ച് ഒരു ഉദാഹരണം പരിഹരിക്കാൻ ശ്രമിക്കാം ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു കഠിനമായ ടാങ്കിനെക്കുറിച്ചാണ് എനിക്ക് ഇവിടെ ഡയഗ്രം ഉണ്ട് ഇത് രണ്ട് കമ്പാർട്ടുമെന്റുകളായി വിഭജിച്ചിരിക്കുന്നു ഒരു വശത്ത് 7കിലോ ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു ഇത് 400C യിലും 100 KPa യിലും ആണ് മറുവശത്ത് നമുക്ക് നൈട്രജൻ 4 കിലോ നൈട്രജൻ 200C യിലും 150 KPa യിലും പിങ്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ പാർട്ടീഷൻ നീക്കം ചെയ്തു വാതകങ്ങൾ പരസ്പരം കൂടിച്ചേരാൻ അനുവദിക്കുന്നു മിശ്രിതത്തിന്റെ അന്തിമ താപനിലയും മർദ്ദവും നമ്മൾ നിർണ്ണയിക്കണം വളരെ നേരിട്ടുള്ള ഒരു ചോദ്യമാണിത് രണ്ട് ഘടകങ്ങളുടെയും പ്രാരംഭ നില നൽകിയിരിക്കുന്നു തുടക്കത്തിൽ അവ മിശ്രിതമല്ലെങ്കിലും പ്രക്രിയയുടെ അവസാനം പരസ്പരം കലർന്നിരിക്കുന്നു അതിനാൽ പരസ്പരം പൂർണ്ണമായും കലർന്നുകഴിഞ്ഞുള്ള അന്തിമ താപനിലയും മർദ്ദവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അതായത് അവ ഏതെങ്കിലും തരത്തിലുള്ള സന്തുലിതാവസ്ഥയിലായിരുന്നു ഇത് ആരംഭിക്കുന്നതിനായി തന്നിരിക്കുന്നത് ഐഡിയൽ വാതകമാണോ റിയൽ വാതകമാണോ എന്ന് കണ്ടുപിടിക്കാം അതിനായി നൽകിയിരിക്കുന്ന വ്യവസ്ഥിതിയിൽ ഓക്സിജനും നൈട്രജനും ഐഡിയൽ വാതകമോ റിയൽ വാതകമോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനാകും അവയുടെ Pr Tr മൂല്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാം രണ്ട് ഘടകങ്ങൾക്കും മർദ്ദങ്ങളും താപനിലയും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അനുബന്ധ ക്രിട്ടിക്കൽ പോയിന്റ് മൂല്യങ്ങൾ ലഭിക്കും ഓക്സിജനും നൈട്രജനും 400Cയിൽ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അത് കെൽവിനിലേക്ക് പരിവർത്തനം ചെയ്യുകയും തുടർന്ന് ഓക്സിജന്റെ ക്രിട്ടിക്കൽ താപനിലയാൽ വിഭജിക്കുകയും ഈ മൂല്യം 2 ന് അടുത്താണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും അതുപോലെ 100 kPa മർദ്ദം ഓക്സിജന്റെ ക്രിട്ടിക്കൽ മർദ്ദത്താൽ വിഭജിക്കപ്പെടേണ്ടതുണ്ട് ഇത് വളരെ ചെറിയ സംഖ്യയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നു നൈട്രജൻ ഉം അതേ നടപടിക്രമം ആവർത്തിക്കുക ഈ സാഹചര്യത്തിൽ രണ്ട് വാതകങ്ങളും ഐഡിയൽ വാതകം പോലെയാണെന്ന് കണ്ടെത്താനാകും അതിനാൽ അവയുടെ മിശ്രിതവും ഐഡിയൽ വാതക മിശ്രിതമായി കണക്കാക്കണം ഇപ്പോൾ നമ്മൾ ടാങ്കിനെ തികച്ചും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു ചുറ്റുപാടുമായി ഏതെങ്കിലും താപ ഇടപെടലിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയിട്ടില്ല അതിനാൽ നമ്മൾ ടാങ്ക് ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും വർക്ക് ട്രാൻസ്ഫർ ഉൾപ്പെടുന്നില്ലെന്നും അനുമാനിച്ച് കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജങ്ങളുടെ മാറ്റങ്ങൾ നമ്മൾ അവഗണിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ചില പ്രോപ്പർട്ടികൾ ഇവയാണ് cvO2 0 658 kJkgK cvN2 0 743 kJkgK ഇത് എങ്ങനെ കണക്കാക്കാം ഇതിൽ ഒരു എനർജി ബാലൻസ് പ്രയോഗിക്കേണ്ടതുണ്ടോ E1 പ്രാരംഭ അവസ്ഥയാണെന്നും E2 അന്തിമ അവസ്ഥയാണെന്നും പറയാം ഇത് ഒരു ട്രാൻസിയൻറ്റ് പ്രക്രിയയാണ് അതിനാൽ മുഴുവൻ പ്രക്രിയയിലും നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതുകയാണെങ്കിൽ ഉത്തരം കണ്ടെത്താനാകും 𝐸2 − 𝐸1 ∆𝐸𝑐𝑜𝑛𝑡𝑟𝑜𝑙 𝑣𝑜𝑙𝑢𝑚𝑒 ഇപ്പോൾ ഇവിടെ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജങ്ങൾ ഇലെ മാറ്റങ്ങളെ നമ്മൾ അവഗണിക്കുകയാണ് അതിനാൽ നമുക്ക് എഴുതാനും കഴിയും 𝑈2 − 𝑈1 ∆𝑈𝑐𝑜𝑛𝑡𝑟𝑜𝑙 𝑣𝑜𝑙𝑢𝑚𝑒 ഇപ്പോൾ സിസ്റ്റം തികച്ചും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വർക്ക് ട്രാൻസ്ഫറുകളും ഇല്ല അതിനർത്ഥം ചുറ്റുപാടുമായി ഹീറ്റ് ഇടപെടലും വർക്ക് ഇടപെടലും ഇല്ല ഈ സിസ്റ്റത്തിനായുള്ള മൊത്തം ആന്തരിക ഊർജ്ജം അല്ലെങ്കിൽ നിയന്ത്രണ അളവ് നമുക്ക് നൽകുന്ന മുഴുവൻ പ്രക്രിയയിലും സമാനമായിരിക്കണം U2 U1 ഇപ്പോൾ ആദ്യമായി നിങ്ങളുടെ ആന്തരിക ഊർജ്ജം എന്താണ് അവസാനമായി നാം തിരിച്ചറിയേണ്ട ആന്തരിക ഊർജ്ജം എന്താണ് അതിനാൽ തുടക്കത്തിൽ U1 എന്നത് ഓക്സിജനും നൈട്രജനും വേർപിരിഞ്ഞ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ U നമുക്ക് എഴുതാം മുകളിൽ പറഞ്ഞ സമവാക്യത്തിന്റെ ആദ്യ പദം ഓക്സിജൻ ഭാഗത്തിന്റെ പ്രാരംഭ ആന്തരിക ഊർജ്ജവും രണ്ടാമത്തെ പദം നൈട്രജൻ ഭാഗത്തിന്റെ പ്രാരംഭ ആന്തരിക ഊർജ്ജവുമാണ് ഈ തുക മിശ്രിതത്തിന് തുല്യമായിരിക്കണം ഈ മിശ്രിതത്തിൽ രണ്ട് ഘടകങ്ങളും വെവ്വേറെ നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതിനാൽ നമുക്ക് അവ പ്രത്യേകമായി പരിഗണിക്കാം നമുക്ക് എഴുതാം അതായത് നമ്മൾ ഇപ്പോൾ അവ പുനക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം ഇപ്പോൾ T2 അന്തിമ താപനിലയാണ് തുടക്കത്തിൽ അവ വേർപിരിഞ്ഞ അവസ്ഥയിൽ ഓക്സിജന് T1 ഉം നൈട്രജന് T1 ഉം വ്യത്യസ്തമാണ് പക്ഷേ അവയുടെ T2 സമാനമായിരിക്കണം അതിനാൽ ഈ T2 നമുക്ക് Tm എന്ന് വിളിക്കാം ഇത് മിശ്രിത താപനിലയാണ് ഇപ്പോൾ രണ്ട് ഘടകങ്ങൾക്കും മാസ് നൽകിയിട്ടുണ്ട് ഓക്സിജന്റെ മാസ് 7 കിലോ നൈട്രജന് ഇത് 4 കിലോഗ്രാം Cv ഞാൻ മൂല്യങ്ങൾക്ക് നൽകി ഈ സാഹചര്യത്തിൽ ഓക്സിജന്റെ T1 400C ക്ക് തുല്യമാണ് അതായത് 313K നൈട്രജന് T1 200C ക്ക് തുല്യമാണ് അതായത് 293 K എല്ലാം ചേർത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്നത് Tm 32 2 0C അതിനാൽ ഇവിടെ മിശ്രിത താപനില ലഭിച്ചു ഇപ്പോൾ മിശ്രിതത്തിന്റെ മർദ്ദം ലഭിക്കാൻ നമ്മൾമിശ്രിതത്തിന്റെ വോളിയം അറിയേണ്ടതുണ്ട് നമുക്ക് വോളിയം അറിയില്ല നമുക്ക് താപനിലയും വോള്യവും ലഭിച്ചുകഴിഞ്ഞാൽ മിശ്രിത അവസ്ഥയിൽ ഐഡിയൽ വാതക സമവാക്യത്തിനായി പോകാം അതിനാൽ ഇപ്രകാരം പറയാം ഇവിടെ Tm നമ്മൾ കണ്ടു പിടിച്ചു ഇനി നമുക്ക് അറിയേണ്ടത് Pm ഉം Vm ഉം ആണ് അതിനാൽ ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ആകെ മോളുകളുടെ എണ്ണം നമുക്ക് കണക്കാക്കാം

അതിനാൽ മിശ്രിതത്തിൽ ഉള്ള ആകെ മോളുകളുടെ എണ്ണം ഇവിടെ നമുക്ക് ആകെ മോളുകളുടെ എണ്ണം ഉണ്ട് ഇനി എനിക്ക് ആകെ വോളിയം നേടേണ്ടതുണ്ട് അമാഗത്തിന്റെ നിയമവും Amagat's law ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമവും Daltons law of partial pressure നമ്മൾ ഇതിനകം പഠിച്ചു അതിനാൽ മൊത്തം വോളിയം അവയുടെ ഘടക വോള്യങ്ങൾക്ക് തുല്യമായിരിക്കണമെന്നും നമുക്ക് പറയാം അപ്പോൾ വ്യക്തിഗത വോളിയം എന്താണ് ഓക്സിജനുവേണ്ടിയുള്ള V1 മാസും മറ്റ് കാര്യങ്ങളും നമുക്കറിയാം ഇവിടെനിന്ന് അത് വളരെ എളുപ്പത്തിൽ കണക്കാക്കാം അതിപ്രകാരം ആയിരിക്കും ഇപ്പോൾ ഓക്സിജൻ റെ മോളു കളുടെ എണ്ണം നമ്മൾ കണക്കാക്കി R bar യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻസ് T1 ഉം P1 ഉം തന്നിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ ഇപ്രകാരം ലഭിക്കും ഇപ്പോൾ ഇത് നോക്കൂ ഇവിടെ ഈ V1O2 കമ്പാർട്ട്മെന്റിന്റെ ഈ വശത്തേക്കുള്ള വോളിയത്തെയും V1N2 കമ്പാർട്ടുമെന്റിന്റെ ഈ വശത്തേക്കുള്ള വോളിയത്തെയും സൂചിപ്പിക്കുന്നു നിങ്ങൾ പാർട്ടീഷൻ നീക്കം ചെയ്തുകഴിഞ്ഞാൽ രണ്ട് വാതകങ്ങളും പരസ്പരം കലരുന്നു അതിനാൽ മൊത്തം മിശ്രിതത്തിന് രണ്ട് കമ്പാർട്ടുമെന്റുകളായ മുഴുവൻ അറയും ഉൾക്കൊള്ളാൻ കഴിയും അതിനാൽ നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത് V2 അല്ലെങ്കിൽ Vm ഇത് ഇതിന് തുല്യമായിരിക്കണം അതിനാൽ ഇത് ഒരു ഐഡിയൽ വാതക മിശ്രിതത്തിനു അന്തിമ മർദ്ദ താപനിലയും നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും ഗുണങ്ങളും ഇതുപോലെ കണക്കാക്കാം ഇനി നമുക്ക് വേഗത്തിൽ റിയൽ വാതക മിശ്രിതങ്ങളിലേക്ക് പോകാം ഇവിടെ നമുക്ക് ഒരു റിയൽ വാതക മിശ്രിതത്തിന് ഒരു സാഹചര്യമുണ്ട് നമുക്ക് ഗ്യാസ് A ഗ്യാസ് B എന്നിവയുണ്ട് അവയുടെ പ്രാരംഭ വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ട് രണ്ടും ഒരേ താപനിലയിലും മർദ്ദത്തിലുമാണ് എന്നാൽ അവയുടെ അളവ് വ്യത്യസ്തമാണ് ഗ്യാസ് A യ്ക്ക് 0 4 m3 ഗ്യാസ് B യ്ക്ക് 0 6 m3 നമ്മൾ മുൻപ് പരിഹരിച്ച ചോദ്യം പോലെ ഇവയെ പരസ്പരം കലർത്താൻ അനുവദിക്കുന്നു രണ്ട് വാതകങ്ങളും ഇപ്പോൾ മുഴുവൻ കമ്പാർട്ടുമെന്റിലും ഉൾക്കൊള്ളുന്നു അതിനാൽ അന്തിമ വോളിയം നൽകിയിട്ടുണ്ട് ഇത് ഗ്യാസ് A യുടെ പ്രാരംഭ വോള്യമായ 0 4 m3 ഗ്യാസ് B യുടെ പ്രാരംഭ വോള്യമായ 0 6 m3 എന്നിവ കൂടുന്നതാണ് അതായത് മൊത്തം 1 m3 ആണ് രണ്ടും ഒരേ താപനിലയിലായതിനാൽ അവയുടെ താപനില തുല്യമായിരിക്കാം അവയുടെ അളവ് തീർച്ചയായും 1 m3 ആണ് എന്നാൽ മർദ്ദം എന്തായിരിക്കും മർദ്ദം 100 kPa ആയി തുടരുമോ അവ ഐഡിയൽ വാതകങ്ങളാണെങ്കിൽ അത് 100 kPa ആയി തുടരണം പക്ഷേ അവ റിയൽ വാതകങ്ങളാണെങ്കിൽ ഇത് 100 kPa ആയിരിക്കില്ല ഇത് ഇതുപോലെയാകാം അത് ഉയർന്നതോ താഴ്ന്നതോ ആകാം അതിനാൽ റിയൽ വാതകങ്ങൾക്ക് നമുക്ക് രണ്ട് ഘടകങ്ങളും പ്രത്യേകം വിശകലനം ചെയ്യാൻ കഴിയില്ല പകരം അവയെല്ലാം ഒരുമിച്ച് ചേർക്കണം കാരണം റിയൽ വാതകങ്ങൾക്ക് ഈ ഗുണങ്ങളെല്ലാം നമുക്കറിയാം h u Cv Cp f T P or V താപനിലയും മർദ്ദം വോളിയം ഇവയിലൊന്ന് വ്യക്തമാക്കണം അതിനാൽ നൽകിയിരിക്കുന്ന രണ്ട് ഘടകങ്ങളുടെ പ്രവർത്തനമാണിത് എൻട്രോപ്പി ഇതിനകം തന്നെ രണ്ട് ഘടകങ്ങളുടെയും ഒരു പ്രവർത്തനമായിരുന്നു അതിനാൽ ഇപ്പോൾ മിശ്രിതത്തിനായി തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിന്റെ Tds ബന്ധം എഴുതുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് മുമ്പ് ഈ Tds ബന്ധം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാം dhm Tmdsm vmdPm നമ്മൾ ഇത് മിശ്രിതത്തിനായി എഴുതി hm നും ഈ ഘടകങ്ങൾക്കും വേണ്ടിയുള്ള പ്രയോഗം നിങ്ങൾക്കറിയാം അതിനാൽ ഘടകങ്ങളുടെ സംഗ്രഹത്തിൽ മുകളിലുള്ള സമവാക്യം ഇപ്രകാരമാണ് ഈ ഉദാഹരണത്തിൽ xi പൊതുവേ സ്ഥിരമായിരിക്കും കാരണം ന്യൂക്ലിയർ പ്രതികരണ തരത്തിലുള്ള ഒരു കാര്യവും നടക്കാത്തതിനാൽ ഘടകങ്ങൾക്ക് ഒന്നിനും മാസ് മാറുന്നില്ല അതിനാൽ മാസ് നശിപ്പിക്കാനാവാത്തതോ സൃഷ്ടിക്കാനാകാത്തതോ ആണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം അതിനാൽxi സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ അത് പുറത്തെടുക്കുന്നു നമുക്ക് ഇത് ഇപ്പോൾ ഇങ്ങനെ എഴുതാം xi മാറാത്തതിനാൽ നമുക്ക് എഴുതാം 𝑑ℎ𝑖 𝑇𝑚 𝑑𝑠𝑖 − 𝑣𝑖 𝑑𝑃𝑚 അതിനാൽ എൻട്രോപ്പിലെ മാറ്റവും മർദ്ദത്തിലെ മാറ്റവും കണക്കാക്കിക്കൊണ്ട് ith ഘടകത്തിനായുള്ള എന്തൽപിയിലെ മാറ്റം കണക്കാക്കാനുള്ള ഒരു മാർഗ്ഗം ഇത് നൽകുന്നു അതിനാൽ എന്തൽപിയുടെയും എൻട്രോപ്പിയുടെയും മാറ്റം നമുക്ക് എങ്ങനെയെങ്കിലും കണക്കാക്കാൻ കഴിയുമെങ്കിൽ അന്തിമ മർദ്ദത്തിലെ മാറ്റം കണക്കാക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഇപ്പോൾ ഓരോ ഘടകങ്ങൾക്കും മൂല്യങ്ങൾ എങ്ങനെ ലഭിക്കും ഓരോ ഘടകത്തിനും നമുക്ക് കുറച്ച പ്രോപ്പർട്ടികൾ TR PR എന്നിവ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ പ്രാരംഭ അവസ്ഥയും അന്തിമ അവസ്ഥയും അവിടെ നിന്ന് Tm Pm എന്നിവയുടെ മൂല്യങ്ങൾ കണക്കുകൂട്ടാൻ കഴിയും ഇത് അമാഗത്തിന്റെ നിയമ സമീപനത്തിന് സമാനമാണ് Vm Tm എന്നിവ നൽകിയിട്ടുണ്ടെങ്കിൽ ആ Vm ഉപയോഗിച്ച് Pm ന്റെ ഏകദേശ മൂല്യം ഐഡിയൽ വാതക സമവാക്യം ഉപയോഗിച്ച് കണക്കാക്കേണ്ടതുണ്ട് അതിൽനിന്ന് നമുക്ക് Tm Pm എന്നിവയുടെ മൂല്യം ലഭിക്കും ഈ പ്രത്യേക ആശയം കൂടുതൽ വ്യക്തമാക്കുന്ന സംഖ്യാ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം മോളിന്റെ അടിസ്ഥാനത്തിൽ 79 നൈട്രജന്റെയും 21 ഓക്സിജന്റെയും മിശ്രിതമായി കാണാവുന്ന വാതകത്തെ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എഴുതാം yN2 0 79 yO2 0 21 ഇത് ഒരു സ്റ്റഡി ഫ്ലോ പ്രക്രിയയാണ് അതിനാൽ 10 MPa യുടെ നിരന്തരമായ മർദ്ദത്തിൽ 220 K മുതൽ 160 K വരെ വായു തണുക്കുന്നു അതിനാൽ സ്ഥിരമായ മർദ്ദത്തിൽ 220 K മുതൽ 160 K വരെ താപനില വ്യതിയാനം ഉണ്ടാകുന്നു ഈ രണ്ട് വാതകങ്ങളെയും ഐഡിയൽ വാതകങ്ങളായി കണക്കാക്കാനാവാത്തവിധം താപനില വളരെ ചെറുതാണ് കാരണം നമ്മൾ സംസാരിക്കുന്ന അവസാന താപനിലയായ 160K വളരെ ചെറുതാണ് ഇത് ഓക്സിജന്റെ ബോയിലിംഗ് പോയിൻറ് ൻറെ വളരെ അടുത്താണ് അതിനാൽ ഈ താപനിലയിലും മർദ്ദത്തിലും ഇവയെ ഐഡിയൽ വാതകങ്ങളായി നമുക്ക് കണക്കാക്കാനോ അനുമാനിക്കാനോ കഴിയില്ല മർദ്ദവും വളരെ കൂടുതലാണ് അതിനാൽ ഐഡിയൽ വാതക കേസ് റൂളും അമാഗത്തിന്റെ നിയമവും ഉപയോഗിച്ച് ഒരു കിലോ മോളിലെ വായുവിലെ താപ കൈമാറ്റത്തിന്റെ അളവ് നമ്മൾ ഇപ്പോൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ നൈട്രജന്റെ ക്രിട്ടിക്കൽ പോയിന്റ് മൂല്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ അക്കങ്ങൾ കുറിച്ചിട്ടുണ്ട് Tcr 126 2 K Pcr 3 39 MPa For oxygen Tcr 154 8 K അവസാന താപനില 160K ആണ് ഇത് ഓക്സിജന്റെ ബോയിലിംഗ് പോയിൻറ് നേക്കാൾ 5K കൂടുതലാണ് ഒപ്പം ഓക്സിജന്റെ Pcr 5 08 MPa യാണ് അതിനാൽ പ്രവർത്തന മർദ്ദവും വളരെ ഉയർന്നതാണ് ഈ സാഹചര്യത്തിൽ വാതകങ്ങൾ ഐഡിയൽ വാതകമായി കണക്കാക്കാനാവില്ല ഈ സാഹചര്യത്തിൽ ഞാൻ ഇത് ഇവിടെ നൽകട്ടെ y for nitrogen 0 79 and y for oxygen 0 21 അതിനാൽ ആദ്യം നമുക്ക് ഐഡിയൽ വാതക അപ്രോക്സിമേഷൻലൂടെ പോകാം എന്നാൽ ഈ പ്രത്യേക പ്രക്രിയയിൽ ഇത് ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ് ആയതിനാൽ അകത്തേക്കുള്ള ഊർജ്ജം മൈനസ് പുറത്തു പോകുന്ന ഊർജ്ജം പൂജ്യത്തിന് തുല്യമാണ് അതായത് കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജങ്ങൾഇലെ മാറ്റങ്ങളെ അവഗണിക്കുകയും മാസ് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് സ്റ്റേറ്റ് നമ്പർ 1 എന്ന് എഴുതാം നമുക്ക് സ്റ്റേറ്റ് 1 ഉം ഇത് സ്റ്റേറ്റ് 2 ഉം ആകാം പിന്നെ ഇവിടെ h1 bar എന്നത് ഒരു യൂണിറ്റ് മോളിൽ വരുന്ന ഊർജ്ജത്തിന്റെ അളവാണ് h2 bar ഒരു യൂണിറ്റ് മോളിലേക്ക് പുറപ്പെടുന്ന ഊർജ്ജത്തിന്റെ അളവാണ് qout ഒരു യൂണിറ്റ് മോളിൽ നിരസിച്ച താപത്തിന്റെ അളവ് അഥവാ h1 bar അല്ലെങ്കിൽ h2 bar എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല ഏതാണ് വലുത് എന്നുമറിയില്ല ഈ അളവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അനുമാനിച്ചത് ശരിയാണെന്ന് മനസ്സിലാക്കാം അതായത് താപം നിരസിക്കപ്പെടുന്നു h1 h2 നേക്കാൾ കുറവാണെങ്കിൽ ചൂട് സിസ്റ്റം ആഗിരണം ചെയ്യുന്നു മോളാർ സെൻസിനായി ഇപ്പോൾ h1 bar h2 bar നമുക്ക് ഇത് എങ്ങനെ എഴുതാം നമുക്ക് ഇത് രണ്ട് ഘടകങ്ങളായി വിഭജിക്കാം അതിനാൽ നമുക്ക് എഴുതാം രണ്ട് ഘടകങ്ങൾക്കും ഇപ്പോൾ ഈ h1 bar h2 bar എന്നിവ തിരിച്ചറിയേണ്ടതുണ്ട് ആദ്യം ഐഡിയൽ വാതക സമവാക്യം ഉപയോഗിക്കുക ഐഡിയൽ വാതക സമവാക്യം ഉപയോഗിച്ച് തന്നിരിക്കുന്ന താപനില നമുക്കറിയാം T1 220 K നമുക്ക് ഒന്നുകിൽ ഐഡിയൽ വാതക സമവാക്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പട്ടികകളിൽ നിന്ന് നേരിട്ട് മൂല്യങ്ങൾ എടുക്കാം ഇവിടെ നമ്മൾ പട്ടികകളിൽ നിന്ന് നേരിട്ട് മൂല്യങ്ങൾ എടുക്കാൻ പോകുന്നു അതിനാൽ ℎ¯1𝑁2 6391 𝑘𝐽𝑘𝑚𝑜𝑙 ഏതൊരു തെർമോഡൈനാമിക് പുസ്തകത്തിലും അനുബന്ധത്തിൽ നിരവധി അനുമാനങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ ഇവിടെ മൂല്യം സെംഗൽ ബോലെസ് പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിനാൽ h1 bar for oxygen 6404 kJkmol T2 160 K 160K സമാനമായി h2 bar for nitrogen 4648 kJkmol and h2 bar for oxygen 4657 kJkmol അതിനാൽ എന്തൽപികളുടെ മൂല്യങ്ങൾ നമുക്കറിയാം മാത്രമല്ല ഇപ്പോൾ തന്നെ ഇത് നേരിട്ട് സ്ഥാപിക്കാൻ കഴിയും മിശ്രിതത്തിന്റെയോ വായുവിന്റെയോ യൂണിറ്റ് മോളിലെ ചൂട് നിരസിക്കൽ അളവ് ഇതിന് തുല്യമായിരിക്കണം 𝑞¯𝑜𝑢𝑡 0 216404 − 4657 1744 𝑘𝐽𝑘𝑚𝑜𝑙 𝑜𝑓 𝑎𝑖𝑟 മൂല്യം പോസിറ്റീവ് ആയി വരുന്നു അതിനർത്ഥം ഊഹിച്ച ദിശ ശരിയാണെന്നാണ് ചൂട് സിസ്റ്റം നിരസിക്കുന്നു അതിനാൽ ഇത് ഐഡിയൽ ഗ്യാസ് ഭാഗത്തിനുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേയുടെ നിയമം പ്രയോഗിക്കേണ്ടതുണ്ട് അത് ഒരു റിയൽ വാതകമായി കണക്കാക്കാൻ പോകുകയാണ് കേയുടെ നിയമം പ്രയോഗിക്കുന്നതിന് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾപഠിച്ച കേയുടെ നിയമം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് ഓർക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അതിവിടെ പ്രയോഗിക്കാം കേയുടെ നിയമം നേടുന്നതിന് മിശ്രിതത്തിനായുള്ള സ്യൂഡോ ക്രിട്ടിക്കൽ താപനില നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും ഇത് ഇതിന് തുല്യമായിരിക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ ഇതിനകം നൈട്രജൻ ഓക്സിജൻ എന്നിവയുടെ ക്രിട്ടിക്കൽ താപനിലയും അവയുടെ മോൾ ഫ്രാക്ഷൻ ഉം എഴുതിയിട്ടുണ്ട് അതിനാൽ മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നതിലൂടെ ഇത് എളുപ്പത്തിൽ കണക്കാക്കാം 132 2 K അതുപോലെ മിശ്രിതത്തിന്റെ ക്രിട്ടിക്കൽ മർദ്ദം ഇതായിരിക്കും അതിനാൽ മിശ്രിതത്തിന്റെ സ്യൂഡോ ക്രിട്ടിക്കൽ മൂല്യങ്ങൾ അവയുടെ മോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ലഭിച്ചു രണ്ട് ഘടകങ്ങൾക്കും കംപ്രസ്സബിലിറ്റി ഫാക്ടർ മൂല്യം ഇപ്പോൾ നമ്മൾ തിരിച്ചറിയണം അതിനായി സ്റ്റേറ്റ് നമ്പർ 1 ലെ കുറഞ്ഞ മർദ്ദം അറിയേണ്ടതുണ്ട് സ്റ്റേറ്റ് 2 ലെ കുറഞ്ഞ മർദ്ദം മർദ്ദം സ്ഥിരമായി ഇരിക്കുന്നതിനാൽ അതായത് 10 MPa സ്റ്റേറ്റ് 1 2 ഇവയിലെ കുറഞ്ഞ മർദ്ദം ഇതായിരിക്കും ഇത് ഒരു ഐസോബറിക് പ്രക്രിയയാണ് അതിനാൽ P1 P2 എന്നിവ രണ്ടും പരസ്പരം തുല്യമാണ് അത് ഇതായിരിക്കും നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കുക എല്ലാത്തിനും MPa ആണ് ഉപയോഗിക്കുന്നത് അതിനാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് പരിവർത്തനം ചെയ്യേണ്ടിവരും അതിനാൽ ഇത് 2 67 ന് തുല്യമായി വരുന്നു അതിനാൽ ഈ Tr1 Tr2 എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ ഈ കേസിൽ കംപ്രസ്സബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണംഅത് 1 ന് അടുത്തായിരിക്കും കൂടാതെ Pr Tr2 ഉപയോഗിച്ച് Z2 മിശ്രിതത്തിന് Z1 1 0 ഉം Z2 2 6 ഉം ആയിരിക്കും ഇപ്പോൾ നമ്മൾ മിശ്രിതത്തിനായി ഈ പ്രത്യേക കാര്യം കണക്കാക്കണം ഇത് എങ്ങനെ കണക്കാക്കാം ഐഡിയൽ വാതകങ്ങൾ അനുമാനിക്കാം അതിനാൽ ഈ ഘടകത്തിനായുള്ള പ്രാരംഭ എന്തൽപി ഇതിന് തുല്യമായിരിക്കണം ഇപ്പോൾ സമവാക്യത്തിലെ രണ്ടാമത്തെ പദം വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നോൺ ഐഡിയൽ വാതക സ്വഭാവം അല്ലെങ്കിൽ ഐഡിയൽ വാതക സ്വഭാവം ആണ് ഇതിന് കാരണം ഇപ്പോൾ നമുക്ക് ഈ മൂല്യങ്ങൾ ലഭിച്ചു 6394 − 4650 − 8 6 3503 𝑘𝐽𝑘𝑚𝑜𝑙 𝑜𝑓 𝑎𝑖𝑟 അതിനാൽ ഐഡിയൽ വാതകം കണക്കാക്കുമ്പോൾ നമ്മുടെ കണക്കാക്കിയ മൂല്യം 1744 ആണ് എന്നാൽ ഈ സാഹചര്യത്തിൽ കിട്ടിയ മൂല്യം അതിന്റെ ഇരട്ടിയാണ് അതിനാൽ ഈ മൂല്യങ്ങളിൽ നിന്ന് കുറഞ്ഞത് എക്സിറ്റ് മൂല്യത്തിൽ നിന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അത് ക്രിട്ടിക്കൽ പോയിൻറ് ഇൽ നിന്ന് വളരെ അകലെയാണ് അതേസമയം ആദ്യത്തേത് വളരെ അടുത്താണ് ഇത് 1 ന് തുല്യമാണ് അതിനാൽ നമുക്ക് ഐഡിയൽ വാതക സ്വഭാവം അനുമാനിക്കാം പക്ഷേ രണ്ടാമത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാൻ കഴിയില്ല അമാഗത്തിന്റെ നിയമനായി ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു അമാഗത്തിന്റെ ലോ Amagat's law ഉപയോഗിച്ച് മർദ്ദവും താപനിലയും കണക്കാക്കുന്നതിനുള്ള ഒരു പ്രശ്നം നമ്മൾ മുൻ പ്രഭാഷണത്തിൽ ഉപയോഗിച്ച പോലെ ഇവിടെ അമാഗത്തിന്റെ നിയമം ഉപയോഗിക്കാൻ ശ്രമിക്കുക നമുക്ക് അത് എളുപ്പത്തിൽ ലഭിച്ചുകഴിഞ്ഞാൽ അനുബന്ധ എന്തൽപി മൂല്യങ്ങളും നേടാനാകും അമാഗത്തിന്റെ നിയമം ഉപയോഗിച്ച് ഫലങ്ങൾ 3717 kJ kmol വരും ഇത് നമ്മൾഇവിടെ കണക്കാക്കിയതിനോട് വളരെ അടുത്താണ് നിങ്ങൾക്ക് ഈ നമ്പർ ലഭിക്കുമോ ഇല്ലയോ എന്ന് ശ്രമിക്കുക അതിനാൽ ഐഡിയൽ വാതകത്തിനും റിയൽ വാതകങ്ങൾക്കുമായി ഒരു വാതക മിശ്രിതത്തിനായുള്ള പൊതുവായ ഇന്റെൻസീവ്വും എക്സ്ടെൻസീവ്മായ സവിശേഷതകൾ ഈ രീതിയിൽ നമുക്ക് കണക്കാക്കാം കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് അറിയപ്പെടുന്ന ഒരു അന്തിമ ആശയം ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ മിശ്രിതത്തിന്റെ സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു മുമ്പത്തെ ഉദാഹരണത്തിൽ ചെയ്തത് പോലെ ഒരു നിശ്ചിത അളവിലുള്ള ഓക്സിജനും നിശ്ചിത അളവിലുള്ള നൈട്രജനും എടുക്കുകയും അവ ഒരുമിച്ച് കലർത്തുകയും ചെയ്യുന്നു ഇവ രണ്ടും പരസ്പരം ചേരുന്നവയാണ് അതിനാൽ വളരെ എളുപ്പത്തിൽ ഇത് ഒരു മിശ്രിതം സൃഷ്ടിക്കുന്നു അതുപോലെ നമ്മൾ വെള്ളവും എഥൈൽ ആൽക്കഹോളും തമ്മിൽ കലർത്തുക ആണെന്ന് കരുതുക അവ രണ്ടും ദ്രാവകങ്ങളാണ് അവ പരസ്പരം ചേരുന്നവയും ആണ് അതിനാൽ അവ വളരെ തികഞ്ഞ മിശ്രിതം സൃഷ്ടിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവയെ വേർതിരിക്കാമോ നമുക്ക് അവ നേരിട്ട് വേർതിരിക്കാനാവില്ല വേർതിരിക്കൽ പ്രക്രിയ സ്വയമേവ ഉണ്ടാകില്ല എന്നതിനാൽ നമുക്ക് ഒരുതരം ഊർജ്ജം നൽകണം ശക്തമായ ഘടകങ്ങൾ തമ്മിലുള്ള വേർതിരിവ് നൈട്രജനും ഓക്സിജനും വായുവിൽ നിന്ന് വേർപെടുത്തുക അല്ലെങ്കിൽ ഈ ദ്രാവക ലായനിയിൽ നിന്ന് വെള്ളവും എഥൈൽ ആൽക്കഹോളും വേർതിരിക്കുന്നതിന് നമുക്ക് ചിലതരം ഊർജ്ജം ചെലവഴിക്കേണ്ടതുണ്ട് അതിനാൽ ഈ മിശ്രിത പ്രക്രിയ തിരികെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതാണ് അതിന് ഒരു ദിശയിൽ മാത്രമേ പോകാൻ കഴിയൂ വിപരീത ദിശ പൂർത്തിയാക്കുന്നതിന് ഇതിനായി നമ്മൾചില ഊർജ്ജം ചെലവഴിക്കേണ്ടതുണ്ട് കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന ആശയം ഇവിടെയാണ് ഉപയോഗത്തിൽ വരുന്നത് ഇവയെ വേർതിരിക്കാൻ എത്രമാത്രം ഊർജ്ജം അല്ലെങ്കിൽ വർക്ക് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഈ ആശയം വേണം ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കമായി ചർച്ച ചെയ്യുകയും ബാക്കി ഭാഗം നിങ്ങൾക്ക് വിട്ടുതരുകയും ചെയ്യും ഇത് അൽപ്പം വിപുലമായ വിഷയമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും പാഠപുസ്തകം പിന്തുടരുന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ ആഴ്ച 2 ൽ വ്യത്യസ്ത തെർമോഡൈനാമിക്സ് സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഗിബ്സ് ഫ്രീ എനർജി എന്നറിയപ്പെടുന്ന ഒന്ന് അവതരിപ്പിച്ചു അതിൻറെ പ്രയോഗം ഓർക്കുന്നുണ്ടോ g എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് ഗിബ്സ് ഫ്രീ എനർജി നിർവചിച്ചിരിക്കുന്നത് നമ്മൾ ഇത് മറ്റ് Tds ബന്ധവുമായി സംയോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം vdP − sdT കാരണം dh − Tds vdP രണ്ടാമത്തെ Tds ബന്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ വിപുലമായ നിർവചനത്തിലേക്ക് പോയാൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം dG VdP − SdT അതിനാൽ മുമ്പ് നൽകിയ ഗിബ്സ് ഫ്രീ എനർജി യുടെ നിർവചനം ഇതാണ് നിങ്ങൾ ശുദ്ധമായ പദാർത്ഥവുമായി ഇടപെടുന്നിടത്തോളം കാലം ഇത് മതിയാകും ശുദ്ധമായ ഒരു പദാർത്ഥത്തിന് G മർദ്ദത്തിന്റെയും താപനിലയുടെയും മാത്രം ഈ പ്രവർത്തനം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും എന്നിരുന്നാലും നമ്മൾ ഒരു മിശ്രിതവുമായി ഇടപെടുമ്പോൾ ഇത് ഒരു മിശ്രിതത്തിന് വേണ്ടിയുള്ള എല്ലാ കോമ്പോസിഷനുകളുടെയും മർദ്ദം താപനില എല്ലാ മോൾ ഫ്രാക്ഷൻ എന്നിവയുടെ പ്രവർത്തനമാണ് 𝐺 𝑓𝑃 𝑇 അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളുടെയും മോളുകളുടെ എണ്ണം k ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനാൽ നമുക്ക് എഴുതാൻ കഴിയും അതിനാൽ ഇതിനുപുറമെ അവസാനത്തെ ഒരു nj dnk വരെ ഞങ്ങൾ സംഗ്രഹ ഫോമിൽ എഴുതുമ്പോൾ ലഭിക്കുന്നത് T P nj എന്നിവ സ്ഥിരമായി നിൽക്കുന്നു dni ഇവിടെ j 1 മുതൽ k വരെ വ്യത്യാസപ്പെടുന്നു പക്ഷേ j i ക്ക് തുല്യമല്ല നമ്മൾ സംസാരിക്കുന്നത് ശുദ്ധമായ ഒരു പദാർത്ഥത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഘടകത്തെക്കുറിച്ചോ ആണെങ്കിൽ മൂന്നാമത്തെ പദം പൂജ്യത്തിന് തുല്യമാണ് അതിനാൽ ഇത് ശുദ്ധമായ പദാർത്ഥ സമവാക്യത്തിലേക്ക് മടങ്ങും എന്നാൽ നമുക്ക് മൾട്ടി കോമ്പൌണ്ട് മിശ്രിതം ഉള്ളപ്പോൾ തീർച്ചയായും മൂന്നാമത്തെ പദം പ്രസക്തമാണ് നിങ്ങൾ ഇപ്പോൾ ഇതിനെ ഈ ശുദ്ധമായ പദാർത്ഥത്തിന്റെ ഫോമുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരുപക്ഷേ ഞങ്ങൾക്ക് ഒരു ഏകീകൃത ഫോം ലഭിക്കും ഇവിടെ ഇതിനെ ഞാൻ സംസാരിക്കുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിലെ മിശ്രിതത്തിന്റെ ഗിബ്സ് പ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഈ കെമിക്കൽ പൊട്ടൻഷ്യൽ പ്രതിനിധീകരിക്കുന്നു ഒരേ ഘട്ടത്തിൽ ഘടകത്തിന്റെ ഒരു യൂണിറ്റ് അളവ് i ചേർക്കുകയോ മിശ്രിതത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ ചെയ്യുമ്പോൾ മറ്റ് എല്ലാ ഘട്ടങ്ങളുടെയും മർദ്ദ താപനിലയും അളവും സ്ഥിരമായി നിലനിർത്തുന്നു പലപ്പോഴും നമ്മൾ ഇതിനെ ഇത്തരത്തിൽ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഇവ ith ഘടകത്തിനുള്ളതാണ് ഈ അളവുകളെ g tilde h tilde s tilde എന്നിവ മിശ്രിതത്തിനോ മിശ്രിതത്തിലെ ith ഘടകത്തിനോ ഉള്ള ഭാഗിക മോളാർ പ്രോപ്പർട്ടികൾ എന്നും വിളിക്കുന്നു അതിനാൽ ഒരു മൾട്ടി കംപോണന്റ് മിശ്രിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ചിത്രത്തിലേക്ക് വരുന്ന കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് ഈ μi രണ്ട് ഘടകങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിരവധി സാഹചര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കാം നിങ്ങൾ ഒരു നിശ്ചിത അളവിൽ 200 മില്ലി വെള്ളവും 100 മില്ലി എഥൈൽ ആൽക്കഹോളും കലർത്തിയിട്ടുണ്ടെന്ന് കരുതുക ഈ മിശ്രിതത്തിന്റെ അവസാന അളവ് 300 മില്ലിക്ക് തുല്യമാകുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അത് സംഭവിക്കുന്നില്ല അന്തിമ വോളിയം ഇതിനെക്കാൾ അല്പം കുറവാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾരണ്ട് പദാർത്ഥങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ താപനിലയിൽ ഒരു മാറ്റമുണ്ട് ഒന്നുകിൽ താപനില കുറയുന്നു അല്ലെങ്കിൽ താപനില വർദ്ധിക്കുന്നു ഇത് കെമിക്കൽ പൊട്ടൻഷ്യൽ മൂലം സംഭവിക്കുന്നതാണ്

അതിനാൽ മിശ്രിതത്തിന്റെ അന്തിമ വോളിയം കണക്കാക്കാൻ നമ്മൾആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അന്തിമ വോളിയം ഇതിന് തുല്യമാകുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾഇത് മോളാർ അർത്ഥത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം എന്നാൽ പ്രായോഗികമായി ഇത് വളരെ സാധാരണമായ നിരവധി സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നില്ല അതിനാൽ ഇതിനെ V എന്ന് സൂചിപ്പിക്കാം പ്രായോഗികമായി ഇവിടെ vi tilde പാർഷ്യൽ മോളാർ സ്പെസിഫിക് വോളിയം സമാനമായി മൂല്യത്തെ ഇങ്ങനെ നിർവചിക്കാം മിശ്രിതത്തിൽ എൻട്രോപ്പി ഇങ്ങനെ നിർവചിക്കാം Sm പ്രതിനിധീകരിക്കുന്നത് ഈ രണ്ട് അളവുകളും തുല്യമല്ല നിങ്ങൾ ഒരു ഐഡിയൽ വാതക മിശ്രിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ മാത്രമേ ഈ രണ്ട് അളവുകളും തുല്യമാകൂ എന്നാൽ റിയൽ സാഹചര്യങ്ങളിൽ പരസ്പരം തുല്യമല്ല അതിനാൽ ഇവ രണ്ടും തമ്മിൽ ഒരു വ്യതിയാനമുണ്ട് ഈ വ്യതിയാനം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് നിർവചിക്കാം അതുപോലെ നമുക്ക് മിക്സിംഗിന്റെ ഒരു എന്തൽപി നിർവചിക്കാൻ കഴിയും ΔHmixing എന്നത് ഇതാണ് അതുപോലെ തന്നെ മിശ്രിതമാക്കുന്നതിനുള്ള എൻട്രോപ്പിയും ഇപ്പോൾ മിക്സിംഗ് പ്രക്രിയ മാറ്റാനാവാത്ത ഒന്നാണ് അതിനാൽ മിക്സിംഗിന്റെ എൻട്രോപ്പി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് അതിനാൽ മിശ്രിതത്തിന്റെ എൻട്രോപ്പി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് മിശ്രിതത്തിന്റെ എൻട്രോപ്പി എല്ലായ്പ്പോഴും മിശ്രിത ഘടകങ്ങളുടെ സംഗ്രഹത്തേക്കാളും അല്ലെങ്കിൽ മിശ്രിത പ്രക്രിയ നടക്കുന്നതിന് മുമ്പും കൂടുതലാണ് അതേസമയം മിശ്രിതത്തിന്റെ എന്തൽപി പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം പ്രത്യേക സന്ദർഭങ്ങളിലും പൂജ്യമാകാം അത് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ചൂട് ഉൽപാദിപ്പിക്കപ്പെടുന്നു ആ പ്രതികരണത്തെ എക്സോതെർമിക് അല്ലെങ്കിൽ മിക്സിംഗ് പ്രക്രിയയെ എക്സോതെർമിക് എന്ന് വിളിക്കുന്നു അത് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ആ മിക്സിംഗ് പ്രക്രിയയെ എൻഡോതെർമിക് എന്നും പൂജ്യമാകുമ്പോൾ മിക്സിംഗ് പ്രക്രിയയെ ഐസോതെർമൽ എന്നും വിളിക്കുന്നു ഒരു ഐസോതെർമൽ മിക്സിംഗിൽ പ്രക്രിയയിൽ താപനിലയിൽ മാറ്റമുണ്ടാകില്ല എക്സോതെർമിക് എൻഡോതെർമിക് മിക്സിംഗ് സമയത്ത് പ്രാരംഭ താപനിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അന്തിമ മിശ്രിതത്തിന്റെ താപനിലയിൽ ഒരു മാറ്റമുണ്ട് അതിനാൽ പലപ്പോഴും ഈ അളവുകളുടെ നിർദ്ദിഷ്ട പതിപ്പുകളും ഞങ്ങൾ നിർവചിക്കേണ്ടതുണ്ട് ഈ മിശ്രിതത്തിന്റെ നിർദ്ദിഷ്ട അളവ് നിർവചിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇതായിരിക്കണം അതുപോലെ മിശ്രിതത്തിന് നിശ്ചിത എന്താൽപി എന്ന് പറയുന്നത് അതുപോലെ മിശ്രിതത്തിന് നിശ്ചിത എൻട്രോപ്പി എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ കണക്കിലെടുക്കുന്ന മിശ്രിതത്തിന്റെ മൂല്യങ്ങൾ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് ഈ കെമിക്കൽ പൊട്ടൻഷ്യൽ ഇൽ ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല എന്നാൽ ഈ ആശയം ഉപയോഗിച്ച് വേർതിരിക്കലിനുള്ള വർക്കിന്റെ ആവശ്യകത കണക്കാക്കാൻ കഴിയും പഠിക്കാൻ താൽപ്പര്യമുള്ള ഏതൊരാൾക്കും ഞാൻ അത് വിടുകയാണ് കാരണം അത് കൂടുതൽ വിപുലമായ തെർമോഡൈനാമിക് ആശയമാണ് അവിടെയാണ് ഈ പ്രത്യേക ആഴ്ച പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ മാസ് മോൾ ഫ്രാക്ഷൻ ഐഡിയൽ റിയൽ വാതക മിശ്രിതങ്ങളുടെ P v T സ്വഭാവം പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വാതക മിശ്രിതങ്ങളുടെ സവിശേഷതകൾ ഒടുവിൽ കെമിക്കൽ പൊട്ടൻഷ്യൽനെ ക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ ആമുഖം നമ്മൾ പഠിച്ചു ഗ്യാസ് മിശ്രിതങ്ങളുമായി ചേർന്ന് ചർച്ച ചെയ്യാവുന്ന മറ്റ് നിരവധി ആശയങ്ങളുണ്ട് പക്ഷേ അതിനായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഈ കോഴ്സിനും പ്രസക്തമല്ല ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രത്യേക കോഴ്സിന്റെ പരിധിക്കപ്പുറമുള്ള നൂതന തെർമോഡൈനാമിക്സിന്റെ വിഷയങ്ങൾ ആകാം അവിടെയാണ് ഞങ്ങളുടെ ആഴ്ച നമ്പർ 10 പൂർത്തിയാകുന്നത് അടുത്ത ആഴ്ച ഞാൻ മറ്റൊരു തരത്തിലുള്ള മിശ്രിതത്തിൽ നിന്ന് ആരംഭിക്കും അവിടെ നമ്മൾ ഐഡിയൽ വാതകത്തിന്റെ മിശ്രിതത്തെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് മേഖലയിൽ അതിന്റെ പ്രയോഗം ഉള്ള ഒരു കണ്ടൻസബിൾ ഗ്യാസ് കണ്ടൻസബിൾ നീരാവി എന്നിവയെ കുറിച്ച് പറയും അതുവരെ നിങ്ങൾ ഈ പ്രഭാഷണം വിശദമായി പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് വീണ്ടും എഴുതുക